നമുക്ക് ഇപ്പോൾ തുടരാം അവസാന വീഡിയോയിൽ നമ്മൾ ഒരു വലയത്തിലെ പ്രൈം ഐഡിയലുകളെക്കുറിച്ച് നോക്കി രണ്ട് ഘടകങ്ങളുടെ ഗുണിതഫലം ഐഡിയലിന്റേതാണെങ്കിൽ ഘടകങ്ങളിലൊന്ന് ഐഡിയലിന്റേതാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ തുടരാം അതിനാൽ ഞാൻ ഇപ്പോൾ വളയങ്ങളുടെ ഒരു പ്രധാന ക്ലാസ് നിർവചിക്കാൻ പോകുന്നു അതിനാൽ ഇതാണ് ഞാൻ ഇപ്പോൾ നൽകുന്ന നിർവചനം അതിനാൽ R ഒരു റിംഗ് ആകട്ടെ അതിനാൽ R നെ "ഇന്റഗ്രൽ ഡൊമെയ്ൻ" എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ പ്രധാനപ്പെട്ട ക്ലാസാണ് ഇത് റിംഗ് R ൻറെ ഒരു പ്രധാന ക്ലാസാണ് ഇനിപ്പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ R നെ ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ എന്ന് വിളിക്കുന്നു a b R ൽ ആണെങ്കിൽ ab 0 ആണ് ab എന്നാൽ axb 0 എന്നത് a 0 അല്ലെങ്കിൽ b 0 ആണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ലളിതമായി പറഞ്ഞാൽ റിംഗിൽ നിങ്ങൾക്ക് രണ്ട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണിതഫലം 0 ആണെങ്കിൽ അവയിലൊന്ന് 0 ആയിരിക്കണം ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു പ്രോപ്പർട്ടി ആണ് ഉദാഹരണത്തിന് പൂർണ്ണസംഖ്യകൾക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ട് അതിനാൽ ഏറ്റവും വ്യക്തമായ ഉദാഹരണം Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് കാരണം നിങ്ങൾ രണ്ട് പൂർണ്ണസംഖ്യകളെ ഗുണിച്ച് നിങ്ങൾക്ക് 0 ലഭിക്കുകയാണെങ്കിൽ അതിൽ ഒരു സംഖ്യ 0 ആയിരിക്കണം രണ്ടും പൂജ്യമല്ലെങ്കിൽ അവയുടെ ഗുണിതഫലം പൂജ്യമല്ലാത്തതാണ് അതിനാൽ Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് ഇത് എളുപ്പമാണ് വാസ്തവത്തിൽ ഇത് പ്രൈം ഐഡിയലിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് നിങ്ങളോട് സൂചിപ്പിക്കുന്നു അവിടെ പ്രൈം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഐഡിയൽ ഉണ്ടായിരുന്നു ab I ൽ ആണെങ്കിൽ a I ൽ അല്ലെങ്കിൽ b I ൽ ആണെന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ab I ൽ ആണെന്ന് പറയുന്നതിനുപകരം ab എന്നത് 0 ന് തുല്യമാണെന്ന് നമ്മൾ പറയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് 0 ഐഡിയലിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് അതിനാൽ 0 ഐഡിയൽ പ്രൈമാണെങ്കിൽ മാത്രം R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണോയെന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ലളിതമായ പ്രവർത്തനമാണ് ഇത് വളരെ ലളിതമായ ഒരു പ്രസ്താവന ആയതിനാൽ ഇത് ഞാൻ ചെയ്യുന്നില്ല ഇത് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാം കാരണം ഇതൊരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ നിങ്ങൾ 0 ഐഡിയൽ എടുത്താൽ രണ്ട് ഘടകങ്ങളുടെ ഗുണിത ഫലം 0 ഐഡിയലിൽ ആയിരിക്കും അതിനർത്ഥം ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അവയിലൊന്ന് 0 ആണ് അതിനാൽ അവയിലൊന്ന് 0 ഐഡിയലിൽ ആയിരിക്കണം അതുപോലെ ഈ 0 ഐഡിയൽ പ്രൈം ആണെങ്കിൽ R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും തുല്യമായ ഒരു ലളിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നു R ഒരു റിങ് ആകട്ടെ I R ന്റെ ഒരു ഐഡിയൽ ആണ് I R ന്റെ ഒരു ഐഡിയൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്ന തുല്യതയുണ്ട് അതിനാൽ നമുക്ക് പറയാൻ കഴിയും R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിൽ മാത്രമേ I പ്രൈം ആവുകയുള്ളൂ അതിനാൽ ഇത് പ്രൈം ഐഡിയലുകളുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ ഈ സ്വഭാവം ഉപയോഗിച്ച് ഐഡിയലുകൾ പ്രൈമാണ് എന്ന് പരിശോധിക്കാൻ ചിലപ്പോൾ ഇത് ഉപയോഗപ്രദമാണ് അതിനാൽ R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിൽ മാത്രമേ I പ്രൈം ആവുകയുള്ളൂ അതിനാൽ ഇത് കോഷ്യന്റ് വളയങ്ങളും ഐഡിയലുകളുടെ കറസ്പോണ്ടൻസ് സിദ്ധാന്തവും മറ്റും കുറച്ചുകാണിച്ചാണ് ഇത് പിന്തുടരുന്നത് അതിനാൽ ഇത് എന്തുകൊണ്ട് ശരിയാണെന്ന് ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പറയാം എന്തുകൊണ്ട് ഇത് ശരിയാണ് എന്തുകൊണ്ടാണ് R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിൽ മാത്രമേ I പ്രൈം ആവുകയുള്ളൂ എന്ന പ്രസ്താവന ശരിയാവുന്നത് അതിനാൽ I പ്രൈമാണെന്ന് കരുതുക അതിനാൽ ഈ ദിശയിൽ I പ്രൈമാണെന്ന് കരുതുക അതിനാൽ നമുക്ക് രണ്ട് ഘടകങ്ങൾ എടുക്കാം R മോഡ് I ന്റെ രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ് അവ R മോഡ് a ബാറിന്റെയും b ബാറിന്റെയും രൂപത്തിലാണ് അതിനാൽ a ബാർ b ബാർ 0 ബാർ ആണെന്ന് കരുതുക ഓർക്കുക റിംഗ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുടെ ഗുണിതഫലം പൂജ്യം ആണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് അവയിലൊന്ന് പൂജ്യമാണ് അതിനാൽ ഗുണിതഫലം പൂജ്യമായ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് എന്നാൽ അതിനർത്ഥം ab ബാർ ഓർക്കുക a ബാർ b ബാർ എന്നാൽ ab മൊത്തത്തിലുള്ള ബാർ ആണ് ഇത് നിർവചനമനുസരിച്ച് കോഷ്യന്റ് വലയത്തെ സൂചിപ്പിക്കുന്നു ഒരു 0 മൊഡ്യൂളോ I എന്ന ഘടകം എടുത്താൽ അതിനർത്ഥം ആ ഘടകം I ലാണ് എന്നാണ് പക്ഷേ I പ്രൈം ആയതിനാൽ I പ്രൈം ആയി കണക്കാക്കിയാൽ I പ്രൈമിലാണെങ്കിൽ ab I ൽ ആയിരിക്കും അതായത് a അല്ലെങ്കിൽ b I ലാണുള്ളത് പക്ഷേ അതിനർത്ഥം a ബാർ അല്ലെങ്കിൽ b ബാർ 0 ആണ് ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ പ്രസ്താവനയാണ് അതിനാൽ I പ്രൈം ആണെങ്കിൽ R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് തിരിച്ചു പറഞ്ഞാൽ R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ I പ്രൈം ആണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ രണ്ട് ഘടകങ്ങൾ എടുക്കുക അവയുടെ ഗുണനഫലം I ൽ ആയിരിക്കണം എന്നിട്ട് ശേഷിപ്പുകൾ എടുക്കുക മുകളിൽ പറഞ്ഞതിന് സമാനമായ ഒരു പ്രവർത്തനമായി ഞാൻ ഇത് തരുന്നു കോഷ്യന്റ് റിംഗ് എന്ന ആശയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നല്ലൊരു പ്രവർത്തനമാണിത് അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഐഡിയൽ പ്രൈമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ഇത് പര്യാപ്തമാണ് അതിനാൽ മാക്സിമൽ ഐഡിയലിലേക്ക് നീങ്ങുന്നതിനുമുമ്പ് ഞാൻ ചില ഉദാഹരണങ്ങൾ ചെയ്യാം അതിനാൽ R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന് കരുതുക ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് മറ്റൊരു ഉദാഹരണം Z മോഡ് 2 Z ആയിരിക്കും ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് Z മോഡ് 4 Z എന്തായിരിക്കും ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല എന്തുകൊണ്ടെന്ന് നോക്കാം എന്തുകൊണ്ടാണിത് ഈ റിംഗിൽ ഗുണനഫലം 0 ആയ രണ്ട് ഘടകങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പക്ഷേ ഒരു ഘടകവും 0 അല്ല അതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും കാരണം 2 ബാർ x 2 ബാർ 4 ബാർ ആണ് അത് Z മോഡ് 4 Zലെ 0 ബാറിന് തുല്യമാണ് എന്നാൽ 2 ബാർ 0 ബാർ അല്ല അതിനാൽ ഇത് അവസാന വീഡിയോയിൽ നമ്മൾ കണ്ട മറ്റൊരു കാരണമാണ് 0 ബാർ 4 ബാർ Z മോഡ് 4Z ൻറെ ഒരു പ്രൈം ഐഡിയൽ അല്ല 0 ബാർ ഒരു പ്രൈം ഐഡിയലല്ല അതിനാൽ ഞാൻ ഇവിടെ നടത്തിയ നിരീക്ഷണത്തിലൂടെ Z മോഡ് 4Z ഒരു പ്രൈം ഐഡിയലല്ല എങ്കിൽ 0 ഐഡിയൽ പ്രൈം ഐഡിയൽ ആണെങ്കിൽ മാത്രം ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് ഇത് കാണാനുള്ള മറ്റൊരു മാർഗ്ഗം ഇനിപ്പറയുന്നതാണ് ക്ഷമിക്കണം 4Z ഞാൻ ബ്രാക്കറ്റുകൾ ഇടരുത് 4Z എന്നത് Z ന്റെ പ്രൈം ഐഡിയൽ അല്ല അത് നമുക്ക് അറിയാം കാരണം 2 ന്റെ ഗുണനഫലം 4Z ൽ ഉണ്ട് എന്നാൽ 2 4Z ൽ ഇല്ല അതിനാൽ 4Z എന്നത് Z ന്റെ പ്രൈം ഐഡിയൽ അല്ല അതിനാൽ ഞാൻ നിങ്ങൾക്കായി തന്നിരിക്കുന്ന പ്രവർത്തനത്തിൽ Z മോഡ് 4 Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആകില്ല അതിനാൽ ഇവയെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാനാകും പ്രൈം ഐഡിയൽ എന്ന ആശയവും ഇന്റഗ്രൽ ഡൊമെയ്ൻ എന്ന ആശയവും അതിനാൽ മറ്റ് ചില ഉദാഹരണങ്ങൾ നോക്കാം നാലാമത്തെ ഉദാഹരണം R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ അതിനാൽ R എന്നത് ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന് നമുക്ക് പറയാം പോളിനോമിയൽ റിംഗ് ഒരു വേരിയബിളിലാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു വാസ്തവത്തിൽ R ന് മുകളിലുള്ള ഏതു വേരിയബിളുകളും ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അതിനാൽ ഇതിന് അൽപ്പം ജോലി ആവശ്യമാണ് പക്ഷേ ഇത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല R x ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെന്ന് നിങ്ങൾ എങ്ങനെ കാണിക്കും ഏതെങ്കിലും രണ്ട് പോളിനോമിയലുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പൂജ്യമല്ലെന്ന് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് അത് തെളിയിക്കണം അതിനാൽ f ഉം g ഉം R x ൽ ആണെങ്കിൽ f ഉം g ഉം പൂജ്യമല്ലെന്ന് പറയാം f g ഉം 0 അല്ല അതിനാൽ ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ നിർവചനത്തിനുള്ള കോൺട്രപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാണ് നിങ്ങൾ പൂജ്യം അല്ലാത്ത രണ്ട് ഘടകങ്ങൾ എടുക്കുക അവയുടെ ഗുണനഫലം പൂജ്യമല്ല കാരണം ഇത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഞാൻ നിങ്ങൾക്ക് വിശദാംശങ്ങൾ നൽകാം fx ഒരു പൂജ്യമല്ലാത്ത പോളിനോമിയൽ ആണെങ്കിൽ അത് an xn ആയി എഴുതുക ശേഷിക്കുന്ന ടേമുകൾ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ g bn xn bm എന്ന് ഞാൻ എഴുതി ഞാൻ അത് കാര്യമാക്കുന്നില്ല an പൂജ്യമല്ലെന്ന് എനിക്കറിയാം an എന്നത് തീർച്ചയായും വളയത്തിന്റെ ഒരു ഘടകമാണ് bm പൂജ്യമല്ല bm R ൽ ആണ് കാരണം f g എന്നിവ പൂജ്യമല്ലാത്ത പോളിനോമിയലുകളാണ് ഇതിൻറെ മുൻനിര ഗുണകങ്ങൾ പൂജ്യമല്ലാത്തതായി എടുക്കാം നമുക്ക് ഏറ്റവും വലിയ ഗുണകങ്ങൾ എടുക്കാം അതിനാൽ f ന്റെ ഡിഗ്രി n ആണ് g ന്റെ ഡിഗ്രി m ആണ് അതിനാൽ നിർവചനം അനുസരിച്ച് ഇവ പൂജ്യമല്ല പക്ഷേ R ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയതിനാൽ പൂജ്യം അല്ല കാരണം an bm എന്നിവ പൂജ്യമല്ലാത്ത ഘടകങ്ങളാണ് അവയുടെ ഗുണനഫലത്തിന് പൂജ്യമാകാൻ കഴിയില്ല ഇപ്പോൾ fx gx ൻറെ ഗുണനം എന്താണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് പോളിനോമിയലുകൾ ഗുണിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ധാരാളം പദങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ n m ഡിഗ്രി ഉള്ള ഒരു പദം കൃത്യമായി ഉണ്ടാകും അതിനാൽ ഇവ താഴ്ന്ന ഡിഗ്രി പദങ്ങളാണ് അത് ഞാൻ കാര്യമാക്കുന്നില്ല f g എന്നിവയുടെ ഗുണനഫലത്തിൽ നിന്നു നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന x ന്റെ ഏറ്റവും വലിയ ഡിഗ്രി m n ആണ് ഇതിൻറെ സംഭാവന ൽ നിന്നാണ് അതിനാൽ നിങ്ങൾ ഗുണനഫലം എടുക്കുമ്പോൾ മറ്റെല്ലാ പദങ്ങൾക്കും ഇത് ബാധകമാണ് അവയുടെ ഡിഗ്രി n m നേക്കാൾ കുറവായിരിക്കും അതിനാൽ അവയെല്ലാം താഴ്ന്ന ഡിഗ്രി പദങ്ങളാണ് ഇപ്പോൾ an ഉം bm ഉം റിംഗിലെ പൂജ്യമല്ലാത്ത ഘടകങ്ങളാണ് an bm പൂജ്യമല്ലാത്തതിനാൽ ഗുണനത്തിൻറെ മറ്റൊരു പദത്തെയും വെട്ടികുറയ്ക്കാൻ കഴിയില്ല അതിനാൽ ഇത് നിലനിൽക്കും ഇത് പൂജ്യമല്ല അതിനാൽ പോളിനോമിയൽ റിംഗിലെ 2 പൂജ്യമല്ലാത്ത ഘടകങ്ങളുടെ ഗുണനഫലം പൂജ്യമല്ലെന്നും ഇത് നിർണായക പ്രസ്താവനയാണെന്നും ഇത് തെളിയിക്കുന്നു an bm പൂജ്യം ആവരുത് അതിനാൽ R എന്നത് ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് അത് തീർച്ചയായും പ്രധാനമാണ് അതിനാൽ ഇല്ലെങ്കിൽ R x ന് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആകാൻ കഴിയില്ല കാരണം R R x നുള്ളിൽ ഇരിക്കുന്നതിനാൽ ഇത് എളുപ്പമുള്ള ഉദാഹരണമാണ് അതിനാൽ ഞാൻ പറയും R ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിൽ ഞാൻ നടത്തിയ പരാമർശത്തിന് ഉദാഹരണമായി നൽകിയ മറ്റൊരു ഉദാഹരണം ആണിത് R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ R പ്രൈം R ന്റെ ഒരു ഉപറിംഗാണെന്ന് നമുക്ക് പറയാം R പ്രൈം R ന്റെ ഒരു ഉപറിംഗാണ് അതിനർത്ഥം ഇത് സങ്കലന ഗുണനത്തിന് കീഴിൽ അടച്ചിരിക്കുന്ന ഒരു ഉപ സെറ്റാണെന്ന് ഓർക്കുക ഇത് വാസ്തവത്തിൽ ഗുണനത്തിന് കീഴിലുള്ള ഒരു ഉപറിംഗാണ് അതിനാൽ ഇത് സ്വയം റിംഗ് ആയിരിക്കുകയും കൂടാതെ R പ്രൈം എന്നത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് ഇത് വ്യക്തമായോ കാരണം നിങ്ങൾ R പ്രൈമിൽ നിന്ന് എടുക്കുന്ന രണ്ട് ഘടകങ്ങൾ അവയുടെ ഗുണനഫലം 0 ആണെങ്കിൽ ആ രണ്ട് ഘടകങ്ങളും വാസ്തവത്തിൽ R ൽ ആണ് അവയുടെ ഗുണനഫലം തീർച്ചയായും ഉപറിങ്ങിൻറെ സ്വഭാവത്തിന് തുല്യമാണ് R പ്രൈമിന്റെ ഗുണനഫലം R ന്റെ ഗുണനഫലത്തിന് തുല്യമാണ് അതിനാൽ R പ്രൈമിന്റെ രണ്ട് ഘടകങ്ങൾ ഗുണിച്ചാൽ നിങ്ങൾക്ക് 0 ലഭിക്കും R ലെ അവയുടെ ഗുണനഫലം 0 ആകുന്നതിനു കാരണം R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അവയിലൊന്ന് പൂജ്യമാണ് അതിനാൽ R പ്രൈം ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന് നിങ്ങൾ നിഗമനം ചെയ്യുന്നു അതിനാൽ ഇത് എളുപ്പമാണ് മറുവശത്ത് നിങ്ങൾ ഒരു ഇന്റഗ്രൽ ഡൊമെയ്നും ഒരു വലിയ റിംഗും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ലഭിക്കില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ R എന്നത് Z x മൊഡ്യൂളായി മാറുന്നു ഐഡിയൽ x സ്ക്വയർഡും അതിനാൽ ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത് അതിനാൽ നമുക്ക് ഇത് പരിശോധിക്കാം അതിനാൽ കോഷ്യന്റ് റിംഗ് Z x എക്സ് സ്ക്വയേർഡ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇതിന് പ്രാധാന്യം ഇല്ല കാരണം x ന്റെ അവശിഷ്ടം പരിഗണിക്കുക x ബാർ R എന്നിവ പരിഗണിക്കുക x ബാർ പൂജ്യമല്ല എന്തുകൊണ്ടാണിത് x ബാർ പൂജ്യമല്ലാത്തതിനു കാരണം x ഐഡിയൽ x സ്ക്വയർഡിൽ ഇല്ലാത്തതിനാലാണ് ഘടകങ്ങളുടെ അവശിഷ്ടങ്ങൾ 0 ആണെന്ന് ഓർക്കുക അവശിഷ്ടമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോഷ്യന്റിങ് ചെയ്യുന്ന ഐഡിയലിൽ ആയിരിക്കണം ഘടകം ഉണ്ടാകേണ്ടത് x നിങ്ങൾ കോഷ്യന്റിങ് ചെയ്യുന്ന ഐഡിയലിൽ ആണെങ്കിൽ മാത്രമേ x ബാർ 0 ആവുകയുള്ളൂ അത് x സ്ക്വയേർഡ് ആണ് എന്നാൽ x x സ്ക്വയേർഡിലല്ല കാരണം x സ്ക്വയറിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഐഡിയൽ x സ്ക്വയറിന്റെ ഗുണിതങ്ങളായ ഘടകങ്ങളുടെ ശേഖരമാണ് പ്രത്യേകിച്ചും നിങ്ങൾ പൂജ്യം അല്ലാത്ത ഒരു ഘടകം x സ്ക്വയേർഡ് ഘടകത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിഗ്രി കുറഞ്ഞത് രണ്ട് ആയിരിക്കും അതേസമയം x ന്റെ ഡിഗ്രി ഒന്നായിരിക്കും അതിനാൽ x x സ്ക്വയേർഡിൽ x ആവില്ല അതിനാൽ ഇത് പൂജ്യം അല്ല പക്ഷേ എക്സ് ബാർ സ്ക്വയറിനെക്കുറിച്ച് എന്താണ് x ബാർ സ്ക്വയേർഡ് x സ്ക്വയേർഡ് ബാർ ആണ് എന്നാൽ x സ്ക്വയേർഡ് ബാർ 0 ആണ് കാരണം x സ്ക്വയേർഡ് ഐഡിയൽ x സ്ക്വയർഡിലാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു പൂജ്യമല്ലാത്ത ഘടകം x ബാർ ഉണ്ട് അതിന്റെ ഗുണിതഫലം 0 ബാർ ആണ് അതിനാൽ നമ്മുടെ Z x മോഡ് x സ്ക്വയേർഡ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന്റെ 0 ഐഡിയൽ ഒരു പ്രൈം ഐഡിയൽ അല്ല എന്നാൽ Z x ഓർക്കുക Z എന്നത് Z x മോഡ് x സ്ക്വയറിനുള്ളിൽ ഇരിക്കുന്നതായി കണക്കാക്കാം കാരണം ഏത് സംഖ്യയും ഒരു പോളിനോമിയലാണ് അത് ഒരു സ്ഥിരമായ പോളിനോമിയലാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു ഘടകമായി എടുക്കാം അതിനാൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ സ്വാഭാവിക മാപ് ആണ് ഞാൻ പറയുന്നത് അതിനാൽ നമുക്ക് സ്വാഭാവിക മാപുകൾ ഉണ്ട് Z മുതൽ Zx വരെ ലളിതമായി Z ഉൾപ്പെടുത്തുന്നതാണ് ഒരു കോഷ്യന്റിങ് പ്രക്രിയയിൽ n എന്ന സംഖ്യയിലേക്ക് പോകുന്ന ഒരു സ്വാഭാവിക മാപ്പും നമുക്കുണ്ട് അതിനാൽ ഇവിടെ രണ്ടാമത്തെ മാപ്പിൽ fx fx ബാറിലേക്ക് പോകുന്നു അതിനാൽ ഇത് നിങ്ങളുടെ കൈവശമുള്ള ഈ ഘടന ഒരു ഇൻജെക്റ്റീവ് മാപ്പ് ആണ് നിങ്ങൾ ഓർക്കുക ഇത് ഒരു ഇൻജെക്റ്റീവ് മാപ്പ് ആണ് കാരണം ഇതിനകത്ത് ഒരിക്കലും ഒരു സംഖ്യ ഇല്ല ഒരു 0 അല്ലാത്ത സംഖ്യ ഒരിക്കലും ഐഡിയൽ x സ്ക്വയറിനുള്ളിൽ ഇല്ല കാരണം n 0 ആണെങ്കിൽ n ബാർ ആണ് കാരണം n ബാർ Z x മോഡ് x സ്ക്വയർഡിലെ 0 ബാർ ആണെങ്കിൽ അതിനർത്ഥം n എന്നത് x സ്ക്വയറിലൂടെ ഉണ്ടായ ഐഡിയൽ ആണെന്നാണ് എന്നാൽ x സ്ക്വയറിലൂടെ ഉണ്ടായ ഒരേയൊരു ഐഡിയൽ പൂർണ്ണ സംഖ്യ 0 ആണ് അതിനാൽ കേർണൽ 0 ആണ് അതിനർത്ഥം ഇത് ഒരു ഇൻജെക്റ്റീവ് മാപ്പ് ആണെന്നാണ് ഒരിക്കൽ ഇതൊരു ഇൻജെക്റ്റീവ് മാപ്പ് Z ആയാൽ ഇത് ആദ്യ ഐസോമോർഫിസ സിദ്ധാന്തം അനുസരിച്ച് ഇതിന്റെ ഇമേജുമായി ഐസോമോർഫിക് ആണ് അതിനാൽ Z നെ Zx മോഡ് x സ്ക്വയർഡിന്റെ ഒരു ഉപറിങ്ങ് ആയി നിങ്ങൾക്ക് കണക്കാക്കാം Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് പക്ഷേ Zx മോഡ് x സ്ക്വയർഡ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല അതിനാൽ ഇന്റഗ്രൽ ഡൊമെയ്നുകളുടെ സബ്റിംഗുകൾ ഇന്റഗ്രൽ ഡൊമെയ്നുകളാണ് എന്നാൽ ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ വലിയ റിംഗ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയിരിക്കണമെന്നില്ല അതിനാൽ ഇവയാണ് ഇന്റഗ്രൽ ഡൊമെയ്നുകളുടെ ചില ഉദാഹരണങ്ങൾ ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ ഈ ആശയം പ്രൈം ഐഡിയലുകളുടെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ് വളയങ്ങൾ മാക്സിമൽ ഐഡിയലുകൾ എന്ന വളരെ പ്രധാനപ്പെട്ട ആശയമാണ് അതിനാൽ ഇവയെ ഞാൻ ഇപ്പോൾ നിർവചിക്കാം അതിനാൽ ഞാൻ മാക്സിമൽ ഐഡിയലുകൾ നിർവചിക്കാൻ പോകുന്നു അതിനാൽ R ഏതെങ്കിലും വളയമായിരിക്കട്ടെ I R ന്റെ ഒരു ഐഡിയലായിരിക്കട്ടെ ഇതൊരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ നമുക്ക് I നെ ഒരു "മാക്സിമൽ ഐഡിയൽ" അല്ലെങ്കിൽ "മാക്സിമൽ" എന്ന് വിളിക്കാം ഇതു വലിയ പ്രശ്നം ഒന്നുമല്ല പക്ഷേ എല്ലായ്പ്പോഴും ഒരു വലിയ പ്രശ്നമുണ്ട് I ഒരു ശരിയായ ഐഡിയലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും R I നെക്കാൾ വലുതായ ഒരു ഐഡിയലായി കണക്കാക്കാം പക്ഷേ അത് ഒരു നിസ്സാര കാര്യമാണ് അതിനാൽ നമുക്കത് പരിഗണിക്കേണ്ട കാര്യമില്ല മാക്സിമൽ ഒഴികെയുള്ള പൂർണ്ണമായ ഐഡിയൽ അതിനാൽ I ഒരു മാക്സിമൽ ഐഡിയലാണ് നിങ്ങൾക്ക് J ഏതെങ്കിലും ഐഡിയൽ ആയി ഉണ്ടെങ്കിൽ I മാക്സിമൽ ഐഡിയൽ ആയി കാണിക്കാനുള്ള ഒരു മാർഗ്ഗം ആണിത് അതിനാൽ ഒന്നാമതായി നമുക്ക് രണ്ട് നിബന്ധനകൾ ആവശ്യമാണ് ഒന്ന് I ഒരു ശരിയായ ഐഡിയലാണ് അതിനാൽ ഓർക്കുക പ്രൈം ഐഡിയലുകൾ ഉചിതമായിരിക്കണം അതുപോലെ തന്നെ മാക്സിമൽ ഐഡിയലുകളും ഉചിതമായിരിക്കണം അതിനർത്ഥം I R ന് തുല്യമല്ല അതിനാൽ ശരിയായ ഐഡിയൽ എന്നതിനർത്ഥം I R ന് തുല്യമല്ല എന്നാണ് രണ്ടാമത്തെ വ്യവസ്ഥ I ആണ് J എന്നത് ഏതെങ്കിലും ഐഡിയ ലാണെങ്കിൽ J യിൽ I അടങ്ങിയിരിക്കുന്നു അത് തീർച്ചയായും R ൽ അടങ്ങിയിരിക്കുന്നു ഒന്നുകിൽ I J ൽ അല്ലെങ്കിൽ J R ൽ ആണ് അതിനാൽ I അടങ്ങിയിരിക്കുന്ന ഒരേയൊരു ഐഡിയൽ ആ ഐഡിയ ലും വളയവും മാത്രമാണ് അതിനാൽ ഇവ മാത്രമാണ് I അടങ്ങിയിരിക്കുന്ന രണ്ട് ഐഡിയലുകൾ അല്ലെങ്കിൽ അത് മാക്സിമൽ ആണ് അതിനാൽ I നും R നും ഇടയിൽ ഒന്നും തന്നെയില്ല അതിനാൽ ഇതാണ് ഒരു മാക്സിമൽ ഐഡിയൽ അതിനാൽ എനിക്ക് ചില അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ ഉണ്ട് ആദ്യത്തെ അഭിപ്രായം ഇത് ഒരു ഉദാഹരണമാണ് എന്നാണ് പൂർണ്ണസംഖ്യകളുടെ വളയം പരിഗണിക്കുക ഇതാണ് നമ്മുടെ ഏറ്റവും പരിചിതമായ ഉദാഹരണം പൂർണ്ണസംഖ്യകളുടെ വളയത്തിൽ നിന്നാണ് നമ്മളെല്ലാം ആരംഭിക്കുന്നത് അതിനാൽ മാക്സിമൽ ഐഡിയലുകൾ എന്തൊക്കെയാണ് ഏതെങ്കിലും ഐഡിയൽ എടുക്കുക I ഒരു ഐഡിയലാകട്ടെ അതിനാൽ Z ന്റെ ഏതൊരു ഐഡിയലും നെഗറ്റീവ് അല്ലാത്ത ഒരു സംഖ്യ n ന് nZ എന്നായി എഴുതാമെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾ ഇത് ഉപയോഗിച്ച് ആരംഭിച്ച അവസാന വീഡിയോയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഓർമ്മിക്കാം അത് പ്രൈം ആയിരിക്കുമ്പോൾ നിർണ്ണയിക്കുകയും ചെയ്യാം ഇപ്പോൾ അത് മാക്സിമൽ ആയിരിക്കുമ്പോൾ നമ്മൾ നിർണ്ണയിക്കാൻ പോകുന്നു അതിനാൽ I nZ ന് തുല്യമായി എടുത്ത് n ലെ ഏത് സാഹചര്യത്തിലാണ് I മാക്സിമൽ ആവുന്നത് എന്ന് നിർണ്ണയിക്കാം അതിനാൽ ആദ്യം n നെ 0 ന് തുല്യമായി പരിഗണിക്കുക ഇതാണ് ആദ്യത്തെ കേസ് അതിനാൽ പ്രൈം ഐഡിയലിന്റെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 0 ഐഡിയൽ ഇവിടെ പ്രൈം ആയി മാറിയപ്പോൾ ഇത് മാക്സിമൽ അല്ല ഈ 0 ഐഡിയൽ വ്യക്തമായും മാക്സിമൽ അല്ല എന്തുകൊണ്ടാണ് ഇത് ഉദാഹരണത്തിന് 0 ഐഡിയൽ Z ൽ അടങ്ങിയിരിക്കുന്നു അത് 2Z ൽ അടങ്ങിയിരിക്കുന്നു 2Z 0 ന് തുല്യമല്ല 2Z Z ന് തുല്യമല്ല അതിനാൽ 0 നെക്കാൾ വലുതും Z നെക്കാൾ ചെറുതുമായ ഒരു ഐഡിയൽ ഉണ്ട് അതിനാൽ അത് ശരിയല്ല അത് മാക്സിമൽ അല്ല അതിനാൽ ഇപ്പോൾ ചില പ്രാരംഭ ഉദാഹരണങ്ങൾ നോക്കാം n 1 ന് തുല്യമാണെങ്കിൽ നമുക്ക് 1 സൃഷ്ടിച്ച ഐഡിയൽ ഉണ്ട് അത് തീർച്ചയായും Z ആണ് നിർവചനം അനുസരിച്ച് ഇത് മാക്സിമൽ അല്ല മാക്സിമൽ ഐഡിയലുകൾ ശരിയായ ഐഡിയലുകളാണ് n 2Z ന് തുല്യമായാലോ ഇപ്പോൾ ഇത് രസകരമാണ് അതിനാൽ 2Z മാക്സിമൽ ആണോയെന്ന് നമുക്ക് നോക്കാം അതിനാൽ 2Z J ൽ അടങ്ങിയിരിക്കുന്നു എന്ന് കരുതുക അത് Z ൽ അടങ്ങിയിരിക്കുന്നു J 2 ന് തുല്യമല്ലെന്ന് കരുതുക J 2 ന് തുല്യമാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു വിവരവും ലഭിക്കുന്നില്ല ഇത് 2Z ന് തുല്യമല്ലെന്ന് കരുതുക എങ്കിൽ അതിനർത്ഥം J യിൽ ഒരു ഒറ്റസംഖ്യ അടങ്ങിയിരിക്കുന്നു എന്നാണ് അതിനാൽ J യിൽ ഒരു ഒറ്റസംഖ്യ അടങ്ങിയിരിക്കുന്നു നമുക്ക് a എന്ന് പറയാം അതിനാൽ J 2Z ന് തുല്യമല്ലാത്തതിനാൽ 2Z എല്ലാ സമാന സംഖ്യകളുടെയും ഗണം ഉൾക്കൊള്ളുന്നുവെന്ന് ഓർക്കുക J ൽ ഒരു ഒറ്റ സംഖ്യ അടങ്ങിയിട്ടില്ലെങ്കിൽ J 2Z ന് തുല്യമായിരിക്കും കാരണം J 2Z ഉള്ളതിനാൽ ഇത് 2Z നേക്കാൾ കർശനമായി വലുതായിരിക്കും അതിൽ ഒരു ഒറ്റ സംഖ്യ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ a എന്ന് വിളിക്കാം എന്നാൽ നമുക്ക് ഉദാഹരണത്തിന് ഒന്ന് എഴുതാം a 1 2Z ലാണ് കാരണം a ഒറ്റയാണ് a 1 ഇരട്ടയാണ് ഓരോ ഇരട്ടസംഖ്യയും 2Z ലാണ് എന്നാൽ 2Z J ൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇതു സൂചിപ്പിക്കുന്നത് a യും a 1 ഉo J ൽ ആണെന്നാണ് a എന്നത് J ൽ ആണ് എന്നാൽ a 1 J യിലാണുള്ളത് എന്നത് ഒരു നിഗമനം ആണ് കാരണം a 1 ഒരു ഇരട്ട സംഖ്യയാണ് അതിനാൽ ഇപ്പോൾ a 1 ഉം a യും J യിലാണെങ്കിൽ ഇതിനർത്ഥം a 1 J യിലാണെന്നാണ് അതിനർത്ഥം 1 J യിലാണ് അതിനർത്ഥം J Z ആണ് തുടർച്ചയായ രണ്ട് സംഖ്യകൾ J യിലാണെങ്കിൽ 1 എന്ന വ്യത്യാസം J ൽ ഉണ്ട് എന്നാൽ J എന്നത് യൂണിറ്റ് ഐഡിയൽ ആണ് 2Z ശരിയായി അടങ്ങിയിരിക്കുന്ന ഏതൊരു ഐഡിയലും പൂർണ്ണ വളയമാണെന്ന് ഇപ്പോൾ ഇത് തെളിയിക്കുന്നു അതായത് 2Z മാക്സിമൽ ആണ് കാരണം ഇത് ഒരു മാക്സിമൽ ഐഡിയലിന്റെ നിർവചനമാണ് നിങ്ങൾ 2Z അടങ്ങിയ ഏതെങ്കിലും ഐഡിയൽ എടുക്കുകയും ആ ഐഡിയൽ 2Z അല്ലാത്തതുമാണെങ്കിൽ ആ ഐഡിയൽ മുഴുവൻ റിംഗ് Z ആണെന്ന് നമ്മൾ കാണിച്ചു അതിനാൽ ഇതാണ് മാക്സിമൽ ഐഡിയൽ n 3 ന് തുല്യം ആയാലോ മുകളിൽ പറഞ്ഞതുപോലെ സമാനമായ ന്യായവാദം 3Z ഉം മാക്സിമൽ ആണെന്ന് കാണിക്കുന്നു ഒരു ഐഡിയലിൽ 3Z ശരിയായി അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിർവചനം അനുസരിച്ച് 3 ന്റെ ഗുണിതമല്ലാത്ത ഒരു സംഖ്യ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അതും 3 ന്റെ ഗുണിതവും ഉപയോഗിച്ച് നിങ്ങൾക്ക് 1 രേഖീയ സംയോജനമായി എഴുതാം അതിനാൽ n 2 ന് തുല്യമായ കേസിൽ നമ്മൾ ഇത് ഉപയോഗിച്ചതിന്റെ കാരണം അതാണ് n 4 ന് തുല്യം ആയാലോ ഒരു മിനിറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 4Z മാക്സിമൽ അല്ല ഇത് ഒരു മാക്സിമൽ അല്ല എന്തുകൊണ്ടാണത് 2Z 4Z ൽ അടങ്ങിയിരിക്കുന്നതിനാൽ Z 2Z ൽ അടങ്ങിയിരിക്കുന്നു ഇത് ശരിയാണ് 2Z എന്നാൽ എല്ലാ ഇരട്ടസംഖ്യകളും എന്നാണ് അർത്ഥം 4Z എന്നാൽ 4 ന്റെ എല്ലാ ഗുണിതങ്ങളും ഇരട്ടയാണ് അതിനാൽ 2Z 4Z ൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ 2Z ൽ 2 അടങ്ങിയിരിക്കുന്നു 4Z ൽ 2 അടങ്ങിയിട്ടില്ല അതിനാൽ ഇത് ഉറപ്പായും വലിയ ഐഡിയൽ ആണ് 2Z തീർച്ചയായും മുഴുവൻ റിംഗ് അല്ല അതിനാൽ 4Z നും Z നും ഇടയിൽ ഉറപ്പായും എന്തെങ്കിലും ഉണ്ട് അതിനാൽ ഇത് ഒരു മാക്സിമൽ ഐഡിയൽ അല്ല കൂടുതൽ സാധാരണമായി പറഞ്ഞാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് n പ്രൈം ആണെങ്കിൽ മാത്രമേ nZ മാക്സിമൽ ആവുകയുള്ളൂ അതിനാൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഞാൻ ഉടൻ തന്നെ മറ്റൊരു നിർദ്ദേശം പറയാൻ പോകുന്നു അത് ഇത് തെളിയിക്കും പക്ഷേ ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ കഴിയും കൂടാതെ n പ്രൈം ആണെങ്കിൽ മാത്രമേ nZ മാക്സിമൽ ആവുകയുള്ളൂ നമ്മൾ ചെയ്ത ഉദാഹരണങ്ങൾ ഓർക്കുക 2 ഉം 3 ഉം മാക്സിമൽ ആണ് 4 മാക്സിമൽ അല്ല കാരണം 2 ഉം 3 ഉം പ്രൈം ആണ് 4 പ്രൈം അല്ല അതിനാൽ n പ്രൈം ആണെങ്കിൽ മാത്രമേ nZ മാക്സിമൽ ആവുകയുള്ളൂ അതിനാൽ നിങ്ങൾ Z ലെ പ്രൈം ഐഡിയലുകളെയും മാക്സിമൽ ഐഡിയലുകളെയും താരതമ്യം ചെയ്താൽ n പ്രൈം ആണെങ്കിൽ Z ന്റെ പ്രൈം ഐഡിയലുകൾ 0 ഉം nZ ഉം ആണ് ഇവിടെ ഈ അധിക പ്രൈം ഐഡിയൽ ഉണ്ടായിരുന്നു 0 എന്നത് Z ന്റെ ഒരു പ്രൈം ഐഡിയൽ ആണ് നമ്മളെ ഈ കഴിഞ്ഞ പ്രവർത്തനത്തിൽ കണക്കാക്കിയ Z ന്റെ മാക്സിമൽ ഐഡിയലുകൾ ഏതൊക്കെയാണ് അതിനാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് Z ന്റെ മാക്സിമൽ ഐഡിയലുകൾ ഏതൊക്കെയാണ് ഇവ nZ മാത്രമാണ് അതിനാൽ ഓരോ മാക്സിമൽ ഐഡിയലും വാസ്തവത്തിൽ ഒരു പ്രൈം ഐഡിയൽ ആണ് പക്ഷേ ഇവിടെ ഒരു മാക്സിമൽ ഐഡിയലല്ലാത്ത ഒരു പ്രൈം ഐഡിയൽ ഉണ്ട് അതിനാൽ ഇത് പൊതുവേ പെട്ടെന്ന് ഉണ്ടായതല്ല നമുക്ക് ഇനിപ്പറയുന്ന നിർദ്ദേശമുണ്ട് R ഒരു വളയമായിരിക്കട്ടെ R ന്റെ ഓരോ മാക്സിമൽ ഐഡിയലും പ്രൈം ആണ് അതിനാൽ ഒരു മാക്സിമൽ ഐഡിയൽ യാന്ത്രികമായി പ്രൈം ആണ് പ്രൈം ഐഡിയലുകൾ മാക്സിമൽ അല്ലെന്ന് നമുക്കറിയാം കാരണം പൂർണ്ണസംഖ്യകളുടെ 0 ഐഡിയൽ പ്രൈം ആണ് ആയതിനാൽ രണ്ട് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം 0 എന്നതിനർത്ഥം അവയിലൊന്ന് പൂജ്യമാണ് എന്നാണ് എന്നാൽ Z ന്റെ 0 ഐഡിയൽ മാക്സിമൽ അല്ല കാരണം ഐഡിയൽ 2Z ൽ 0Z ശരിയായി അടങ്ങിയിരിക്കുന്നു 2Z ശരിയായ ഐഡിയൽ ആണ് അതിനാൽ പ്രൈം ഐഡിയലുകൾ എല്ലായ്പ്പോഴും മാക്സിമൽ അല്ല എന്നിരുന്നാലും മാക്സിമൽ ഐഡിയലുകൾ എല്ലായ്പ്പോഴും ഉചിതമാണ് അതിന് എന്താണ് തെളിവ് I R ന്റെ മാക്സിമൽ ഐഡിയലായിരിക്കട്ടെ അതിനാൽ I പ്രൈം ആണെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഓർമിക്കുക പ്രൈം എന്നതിന്റെ നിർവചനം രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലം I ആണെങ്കിൽ അവയിലൊന്ന് I ൽ ആണെന്നാണ് അതിനാൽ a b റിംഗ് R ന്റെ ഘടകങ്ങളായിരിക്കട്ടെ അതായത് ab I ലാണുള്ളത് ഒന്നുകിൽ a അല്ലെങ്കിൽ b I ൽ ആണെന്ന് അവസാനം നമുക്ക് തെളിയിക്കണം a I ലില്ലെന്ന് കരുതുക അതിനാൽ a I ലുണ്ടെങ്കിൽ നമ്മൾ തെളിവ് പൂർത്തിയാക്കി കാരണം അവയിലൊന്ന് I ലുണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് a I ലുണ്ടെങ്കിൽ നമ്മൾ തെളിവ് പൂർത്തിയാക്കി a I ൽ ഇല്ലെങ്കിൽ വാസ്തവത്തിൽ b I ൽ ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കണം അതിനാൽ a I ൽ ഇല്ലെന്ന് കരുതുക അപ്പോൾ Ia ആയി നിർവചിക്കുന്ന ഐഡിയൽ J പരിഗണിക്കുക നിങ്ങൾ ഓർക്കുന്നോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഐഡിയലുകളുടെ കൂട്ടൽ നിർവചിച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ഓർമ്മിക്കാം ഇവയെല്ലാം xar ന്റെ ഘടകങ്ങൾ ആണ് ഇവിടെ x I ലും r R ലും ആണ് ഇത് ഘടകങ്ങളുടെ ലളിതമായ വിവരണമാണ് പക്ഷേ പൊതുവേ I ഉം J ഉം രണ്ട് ഐഡിയലുകളാണെങ്കിൽ I J വെറും r s അല്ലെങ്കിൽ ab ആണെന്ന് നമുക്ക് പറയാം a I യിലാണ് b J യിലാണ് ഇത് വാസ്തവത്തിൽ ഐഡിയലാണ് നിങ്ങൾ ഇത് ഓർക്കുന്നുവെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ ദയവായി ഈ പ്രവർത്തനം ചെയ്യുക നിങ്ങൾക്ക് രണ്ട് ഐഡിയലുകൾ ഉണ്ടെങ്കിൽ അവയുടെ ആകെത്തുക ഒരു ഐഡിയൽ ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ I ന്റെ ഏതെങ്കിലും ഒരു ഘടകം എടുക്കുക I സൃഷ്ടിച്ച ഐഡിയലിന്റെ ഏതു ഘടകവും ar ന്റെ രൂപത്തിലാണ് കാരണം a സൃഷ്ടിച്ച ഐഡിയൽ R ലെ ar ന്റെ ഘടകങ്ങളുടെ രൂപത്തിലാണ് ഇപ്പോൾ ഇത് വ്യക്തമായും I അടങ്ങിയിട്ടുള്ള ഐഡിയൽ ആണ് കാരണം നിങ്ങൾക്ക് R 0 ആയി എടുക്കാം x I ൽ ആണെങ്കിൽ x0 Ia യിലാണ് അതിനാൽ x J യിലാണ് തീർച്ചയായും I ൽ J ഉൾക്കൊള്ളുന്നു കൂടാതെ I J യ്ക്ക് തുല്യമല്ല ഈ അവസാന പോയിന്റ് a J യിലാണുള്ളത് എന്നാണ് പക്ഷേ a I ൽ ഇല്ല എന്നാണ് നിഗമനം ഓർക്കുക a J യിലാണ് കാരണം നിങ്ങൾക്ക് x 0 ആയും R 1 ആയും എടുക്കാം അതിനർത്ഥം 0a J യിലാണെന്നാണ് ഓർക്കുക പൊതുവായി നമ്മൾ രണ്ട് ഐഡിയലുകൾ എടുത്ത് അവയെ കൂട്ടിയാൽ അവയുടെ ആകെത്തുക അത് ഒരു വലിയ ഐഡിയൽ ആയിരിക്കും അത് ഇവ രണ്ടും സൃഷ്ടിക്കുന്ന ഒരു ഐഡിയൽ ആണ് അതിനാൽ അതിൽ രണ്ടും അടങ്ങിയിരിക്കുന്നു അതിനാൽ ഐഡിയൽ J എന്നത് I ഉം a ഉം സൃഷ്ടിക്കുന്ന ഐഡിയൽ ആണ് അതിനാൽ അതിൽ a അടങ്ങിയിരിക്കുന്നു പക്ഷേ അനുമാനമനുസരിച്ച് I ൽ a ഇല്ല ഈ ഐഡിയൽ J ആണ് അത് I നേക്കാൾ ഉറപ്പായും വലിയ ഒരു ഐഡിയലാണ് പക്ഷേ I നേക്കുറിച്ച് നമുക്കെന്തറിയാം I മാക്സിമൽ ആണെന്നാണ് അനുമാനം നമ്മൾ ഒരു മാക്സിമൽ ഐഡിയലിൽ നിന്നാണ് തുടങ്ങിയത് I ഒരു മാക്സിമൽ ഐഡിയലാണ് അത് നമ്മൾ ചെയ്തുകഴിഞ്ഞു അതിനാൽ അത് പ്രൈം ആണ് അതിനാൽ I മാക്സിമൽ ആണെന്നതിനർത്ഥം I നും R നും ഇടയിൽ ഒരു ഐഡിയലും ശരിയായി ഉണ്ടാവില്ല എന്നാണ് J R ന് തുല്യമാണ് J I നെക്കാൾ വലുതാണ് അതിനാൽ J മുഴുവൻ റിംഗ് R ആയിരിക്കണം അതിനർത്ഥം 1 എല്ലായ്പ്പോഴും R ൽ ആണ് അത് J ആണ് അതിനർത്ഥം 1 J യിലാണ് അതിനാൽ J ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിൽ എഴുതാൻ കഴിയും അതിനാൽ I ൽ x ഉo R ൽ r ഉo നിലവിലുണ്ട് അതായത് 1 xar ന് തുല്യമാണ് കാരണം J ന്റെ എല്ലാ ഘടകങ്ങളും xar ന്റെ രൂപത്തിലാണ് ഇവിടെ I ന്റെ ഒരു ഘടകമാണ് x r റിംഗിന്റെ ഒരു ഘടകമാണ് 1 എന്നത് R ന്റെ ഒരു ഘടകമാണെന്ന് നമ്മൾ നിഗമിക്കുന്നു അതിനാൽ 1 J ന്റെ ഒരു ഘടകമാണ് അതിനാൽ x r എന്നീ ഘടകങ്ങൾ നിലവിലുണ്ട് അതായത് xar ഒന്നിന് തുല്യമാണ് എന്നാൽ ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം ഇരുവശവും b കൊണ്ട് ഗുണിക്കാം b നമ്മളുടെ മറ്റൊരു ഘടകമാണ് അതിനാൽ നമുക്ക് ലഭിക്കുന്നത് b bxabr തുല്യമാണ് എന്നാണ് bx1 എന്നത് b ആണ് bxabr എന്നത് സങ്കലനത്തിന്റെയും ഗുണനത്തിന്റെയും വിതരണമാണ് എന്നാൽ x R ൽ ആണ് ക്ഷമിക്കണം x I ൽ ആണ് വാസ്തവത്തിൽ x I ൽ ആയതിനാൽ bx I ൽ ആണ് അതായത് x I ൽ ആണെങ്കിൽ bx ഉം I ൽ ആയിരിക്കും ശരിയാണ് കാരണം I ഏതൊരു ആർബിട്രറി റിംഗ് ഘടകവുമായി ഗുണിക്കാവുന്ന ഒരു ഐഡിയൽ ആണ് നമുക്ക് b യെക്കുറിച്ച് ഇവിടെ ഒന്നും ആവശ്യമില്ല b യിൽ ഏതെങ്കിലും റിംഗ് ഘടകം bx I ൽ ആണ് കൂടാതെ ab I ലാണെന്നാണ് അനുമാനം കാരണം നമ്മൾ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലം എടുത്തപ്പോൾ അത് I ലാണ് അതിനാൽ abr I ൽ ഉണ്ട് അതിനാൽ abx I ലായതിനാൽ അവയുടെ ആകെത്തുകയും I ലാണ് bx എന്നത് I ന്റെ ഒരു ഘടകം ആണ് abr എന്നത് I ന്റെ ഒരു ഘടകമാണ് അവയുടെ ആകെത്തുക I യിലുണ്ട് എന്നാൽ എന്താണ് ഈ തുക ഇത് കൃത്യമായി bbxbx abr ആണ് ഇതിനർത്ഥം b I ലാണ് എന്നാണ് അതിനാൽ I പ്രൈം ആണ് അതിനാൽ നമ്മൾ കാണിച്ചത് I ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ വളയത്തിലെ രണ്ട് ഘടകങ്ങൾക്ക് അവയുടെ ഗുണനഫലം I ലാണെന്ന പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ അവയിലൊന്ന് ഉറപ്പായും I ലായിരിക്കും അതിനാൽ I പ്രൈം ആണ് അതിനാൽ ഇത് തെളിവ് പൂർത്തിയാക്കുന്നു ഇപ്പോൾ നമ്മൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ പ്രവർത്തനത്തിലേക്ക് മടങ്ങുന്നു അവിടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് പൂർണ്ണസംഖ്യകളുടെ ഐഡിയൽ nZ n പ്രൈം ആണെങ്കിൽ മാത്രം മാക്സിമൽ ആയിരിക്കും എന്ന് കാണിക്കാനാണ് ഇത് ഇപ്പോൾ വ്യക്തമാണ് കാരണം ഇത് മാക്സിമൽ ആണെങ്കിൽ ശരി അതിന്റെ ഒരു ദിശ കുറഞ്ഞത് അത് മാക്സിമൽ ആണെങ്കിൽ അത് പ്രൈം ആണെന്നുള്ളതാണ് മാത്രമല്ല അത് n ആകാൻ പാടില്ല n 0 ആകാൻ പാടില്ല അതിനാൽ n പ്രൈം ആയിരിക്കണം മറുവശത്ത് n പ്രൈം ആണെങ്കിൽ അത് മാക്സിമൽ ആണെന്ന് നിങ്ങൾ കാണിക്കണം അതിനാൽ ആ ഭാഗം നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് അതിനാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തട്ടെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്റഗ്രൽ ഡൊമെയ്നുകളുടെ ആശയം നോക്കി നമ്മൾ മാക്സിമൽ ഐഡിയലുകളെക്കുറിച്ചാണ് സംസാരിച്ചുതുടങ്ങിയത് നമ്മൾ പൂർണ്ണസംഖ്യകളുടെ മാക്സിമൽ ഐഡിയലുകളെകുറിച്ചുള്ള സവിശേഷതകൾ നോക്കി മാത്രമല്ല നമ്മൾ ഏതൊരു മാക്സിമൽ ഐഡിയലും ഒരു പ്രൈം ഐഡിയൽ ആണെന്ന് തെളിയിച്ചു